എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിലെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പതിനേഴാമത്തെ ലക്ച്ചറാണ് ഇന്ന് നമ്മൾ രണ്ട് വേരിയബിളുകളുള്ള ഫങ്ക്ഷന്റെ മാക്സിമയേയും മിനിമയേയും കുറിച്ച് സംസാരിക്കും ഒരു പ്രത്യേക ഡൊമെയിനിലെ മാക്സിമം വാല്യുവും മിനിമം വാല്യുവും കണ്ടെത്തുന്നതിന് ആവശ്യമായ വ്യവസ്ഥകളെക്കുറിച്ച് പ്രത്യേകം നമ്മൾ സംസാരിക്കും എന്താണ് ലോക്കൽ മാക്സിമവും മിനിമവും എന്നുള്ളത് ഇവിടെ നമ്മൾ നിർവചിക്കും അപ്പോൾ ഒരു zfxy എന്ന ഫംഗ്ഷൻx0 y0 എന്ന ഒരു പോയിന്റിൽ മാക്സിമം ഉണ്ടാവുക ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റിലും ആ ഫംഗ്ഷന്റെ മൂല്യം ആ പോയന്റിനേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിലാണ് ഇതിനർത്ഥം നമ്മൾ ഒരു x0 y0 എന്ന പോയന്റിൽ മാക്സിമം വാല്യൂ എടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റിലും ആ ചെറിയ വാല്യൂ എടുക്കുമ്പോഴാണ് അപ്പോൾ സ്വാഭാവികമായി ഈ പോയന്റിൽ ലോക്കൽ മാക്സിമം നേടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മിനിമവും നിർവചിക്കാം അപ്പോൾ ഈ ഒരു പോയന്റിൽ ഒരു മിനിമം ഉണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളും ആ പോയന്റിലുള്ള വാല്യൂനേക്കാളേറെ വലിയ വാല്യൂവായിരിക്കും ഇത്തരം മാക്സിമങ്ങളെ അല്ലെങ്കിൽ മിനിമങ്ങളെ റിലേറ്റീവ് അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം എന്നാണ് വിളിക്കുന്നത് കാരണം നമ്മൾ ആ ഡോമൈനിലുള്ള മൊത്തം ഫംഗ്ഷനുകളെ കുറിച്ചും സംസാരിക്കുന്നില്ല നമ്മൾ ഒരു നിശ്ചിത പോയന്റിനെ കുറിച്ചും അതിന്റെ സ്വഭാവത്തെ ലോക്കലായിട്ട് പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള മറ്റെല്ലാ പോയന്റുകളിലും ഈ ഫംഗ്ഷൻ ചെറിയ വാല്യു ആണ് എടുക്കുന്നതെങ്കിൽ അതൊരു ലോക്കൽ മാക്സിമം ആണെന്ന് നമ്മൾ പറയുന്നു അത് പോലെ ഒരു നിശ്ചിത പോയന്റിന്റെ ചുറ്റുവട്ടത്ത് വലിയ വാല്യൂകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ലോക്കൽ മിനിമത്തിന്റെ ഒരു പോയന്റ് എന്നാണ് പറയുന്നത് ഈ മാക്സിമം മിനിമം വാല്യൂകളെ ഒരുമിച്ച് നമ്മൾ എക്സ്ട്രീം വാല്യൂ എന്ന് വിളിക്കുന്നു ഇവിടെ z4x2y2e എന്നതിന്റെ പ്രതലം നമുക്ക് വ്യക്തമായി കാണാം അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പോയന്റിൽ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള പോയന്റിലെ ചെറിയ വാല്യു ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ലോക്കലായി മാക്സിമം ആണ് അപ്പോൾ അതിനെ നമ്മൾ ലോക്കൽ മാക്സിമം എന്ന് വിളിക്കുന്നു ഇവിടെ ഈയൊരു പോയന്റിലും ഇതേ സാഹചര്യമാണുള്ളത് അതായത് ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളിലും ഫംഗ്ഷൻ ചെറിയ വാല്യൂകളാണ് കൈക്കൊള്ളുന്നത് അപ്പോൾ ഇവിടെയും ഈ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ആണുള്ളത് സമാനമായി ഇവിടെയുള്ള ഈ പോയന്റിലും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഫംഗ്ഷന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളിലും ആ പോയന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂനേക്കാൾ വലിയ വാല്യൂകളാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു ലോക്കൽ മിനിമം ആണ് ഇനി എന്താണ് കേവല അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമവും മാക്സിമവും ഡൊമൈനിന്റെ അതിർത്തി ഉൾപ്പെടെ മുഴുവൻ ഡൊമൈനിലും ഒരു ഫംഗ്ഷൻനേടിയ ഏറ്റവും ചെറുതും വലുതുമായ മൂല്യങ്ങളെ യഥാക്രമം കേവലം അല്ലെങ്കിൽ ഗ്ലോബൽ മിനിമവും മാക്സിമവും എന്ന് വിളിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നിശ്ചിത പോയന്റിന്റെ ചുറ്റുവട്ടത്ത് ലോക്കലായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് മൊത്തം ഡൊമൈനിന്റെയും മേലിൽ ഫംഗ്ഷൻനേടിയിട്ടുള്ള ഏറ്റവും ചെറുതും വലുതുമായ മൂല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മൂല്യത്തിനെ നമ്മൾ ഫംഗ്ഷൻ കേവല മിനിമം മൂല്യം ആയിട്ടോ കേവലം മാക്സിമം മൂല്യമായിട്ടോ ആണ് വിളിക്കുന്നത് മാത്രമല്ല സ്വാഭാവികമായും ഇത്തരം ലോക്കൽ കേവല മാക്സിമവും മിനിമവും കണ്ടെത്തുന്നതിന് നമ്മൾ ഡൊമൈനിന്റെ അതിർത്തികളും ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ fxyx22y2 നോക്കുകയാണെങ്കിൽ x2y2 ≤1 എന്നും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ആരം ഒന്ന് ആയിട്ടുള്ള ഒരു ഡിസ്ക് ആണ് ഇവിടെ നമുക്ക് ഇതിന്റെ അതിർത്തിയുമുണ്ട് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ ഡൊമൈനിനകത്താണ് ഇവിടെയുള്ള ഈ പോയന്റുകളിലെല്ലാമാണ് അപ്പോൾ x22y2 എന്നത് ഇവിടെയുള്ള ഒരു പ്രതലമാണ് ഇനി നമുക്കിവിടെ കാണാനാകുന്നത് പോലെ ഇവിടെയെവിടെയോ ആയി 00 ൽ ഒരു ലോക്കൽ മിനിമം ഉണ്ടാവുന്നതാണ് പക്ഷേ അത് ഒരു ഗ്ലോബൽ മിനിമം ആയിരിക്കും കാരണം ഫംഗ്ഷൻഈ പോയന്റിനേക്കാൾ ചെറിയ മൂല്യം എടുക്കുന്നതോ മാക്സിമം കണ്ടെത്താനാവുന്നതോ ആയ മറ്റൊരു പോയന്റും നമുക്ക് കാണാനാവില്ല അപ്പോൾ ഈ പോയന്റുകളിൽ ഈ ഫംഗ്ഷൻ മാക്സിമം മൂല്യം കൈക്കൊള്ളുന്നതായി കാണപ്പെടുന്നു അത് ഈ പോയന്റിലും ഈ പോയന്റിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഗണിതപരമായി ഈ ഡൊമൈനിൽ ഫംഗ്ഷൻ എവിടെയാണ് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ എടുക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ ഈ കേസിൽ നമ്മൾ അതിർത്തികൾ കണക്കിലെടുത്ത് അതിന്റെ എല്ലാ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും കണ്ടെത്തുകയാണെങ്കിൽ മാത്രമല്ല ഈ ഫംഗ്ഷൻ മറ്റെവിടെയെങ്കിലും മാക്സിമം വാല്യൂ കൈക്കൊള്ളുന്നുണ്ടോയെന്നും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ലോക്കൽ മാക്സിമങ്ങളിൽനിന്നും മിനിമങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റവും വലുതും ചെറുതുമായ മൂല്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഈ ഫംഗ്ഷന്റെ കേവല മാക്സിമം അല്ലെങ്കിൽ കേവല മിനിമം ആണെന്ന് പറയാവുന്നതാണ് അതിനാൽ മറ്റൊരു പദാവലിയും ഈ ലക്ച്ചറിൽ നമ്മൾ ഉപയോഗിക്കും ക്രിട്ടിക്കൽ പോയന്റും സാഡിൽ പോയന്റും അപ്പോൾ പോയന്റ് x0 y0 fxy യുടെ ക്രിട്ടിക്കൽ പോയന്റ് ആണെന്ന് പറയുന്നത് അതിനെ സ്റ്റേഷനറി പോയിന്റ് എന്നും വിളിക്കാറുണ്ട് ഈ x0y0 പോയന്റിൽ fx ഫംഗ്ഷന്റെ ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യം ആണെങ്കിലാണ് അതുപോലെ x0y0യിൽ ഫംഗ്ഷൻ fy യുടെ ഭാഗിക ഡെറിവേറ്റീവും പൂജ്യമാണെങ്കിലാണ് അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ അവ നിലവിൽ ഇല്ലാത്തപ്പോളാണ് അപ്പോൾ ആ ഒരു സാധ്യതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ക്രിട്ടിക്കൽ പോയന്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി പോയന്റിന്റെ നിർവചനം അപ്പോൾ fx ഉം fy ഉം പൂജ്യമായ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളിലും ഫംഗ്ഷനുകൾക്ക് മിനിമവും മാക്സിമവും ഇല്ലെങ്കിൽ അതിനെ സാഡിൽ പോയന്റെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അടുത്ത സ്ലൈഡിൽ അടിസ്ഥാനപരമായി നമ്മളെന്താണ് കണ്ടെത്തുക എന്നാൽ ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ക്രിട്ടിക്കൽ പോയിന്റുകളിലേ നിലനിൽക്കുകയുള്ളൂ പക്ഷേ ചില ക്രിട്ടിക്കൽ പോയന്റുകളിൽ ഫംഗ്ഷൻ ലോക്കൽ മിനിമമോ മാക്സിമമോ കൈകൊള്ളാത്തതായിട്ടുണ്ടാവും അത്തരം ക്രിട്ടിക്കൽ പോയന്റുകൾ സാഡിൽ പോയന്റ് എന്നായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ സാഹചര്യം മനസ്സിലാക്കാൻ നമുക്കിവിടെ ഒരുപാട് ക്രിട്ടിക്കൽ പോയന്റുകളാണ് അത് നമ്മൾ കുറച്ചു കഴിഞ്ഞു വീണ്ടും ഗണിതപരമായി കണ്ടെത്തും അപ്പോൾ ഇത് ഉദാഹരണത്തിന് x ന് അനുസൃതമായി ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യമായ ഒരു പോയന്റാണിത് അതുപോലെ y ക്ക് അനുസൃതമായും രണ്ട് ഭാഗിക ഡെറിവേറ്റീവുകളും പൂജ്യമായ ഒരു പോയന്റ് ഉണ്ടാവും അപ്പോൾ അടിസ്ഥാനപരമായി ടാൻജെന്റ് പ്ലെയിൻ x y പ്ലെയിനിന് സമാന്തരമായിരിക്കും ഇവിടെയും പൂജ്യമാകുന്ന ഒരു പോയന്റ് ഉണ്ടാവും ഇവിടെയും fx ഉം fy ഉം പൂജ്യമാകുന്ന ഒരു പോയന്റ് ഉണ്ടാവും അപ്പോൾ ഈ പോയന്റുകളെല്ലാം ഉദാഹരണത്തിന് ഈ ക്രിട്ടിക്കൽ പോയന്റുകൾ അപ്പോൾ ഇത് ഇവിടെ ലോക്കൽ മിനിമം ആയിരിക്കും ഇതും ലോക്കൽ മിനിമം ആയിരിക്കും ഇവിടെ ഇത് ഒരു ലോക്കൽ മാക്സിമം ആണ് ഇവിടെയും ഇതൊരു ലോക്കൽ മാക്സിമം ആണ് പക്ഷേ ഈ ഒരു പോയന്റിൽ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ ഇത് സമാന സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ കാരണം നമ്മൾ y ന്റെ ദിശയിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ചെറിയ വാല്യൂ ആണ് കൈക്കൊള്ളുന്നത് പക്ഷേ ഇത് നമ്മൾ x ന്റെ ദിശയിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫംഗ്ഷൻ പോയിന്റിനേക്കാൾ വലിയ വാല്യൂ കൈക്കൊള്ളുന്നു അപ്പോൾ ഈ പോയന്റിനെ നമുക്ക് ലോക്കൽ മാക്സിമം എന്നോ ലോക്കൽ മിനിമം എന്നോ ആയി കണക്കാക്കാനാവില്ല ഈ പോയന്റിൽ x നും y ക്കും അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യം ആണെങ്കിലും അപ്പോൾ ഇതൊരു സ്റ്റേഷനറി പോയന്റാണ് പക്ഷേ ഇതൊരു ലോക്കൽ മാക്സിമമോ മിനിമമോ അല്ല അപ്പോൾ അത്തരം പോയന്റുകളെ നമ്മൾ സാഡിൽ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് ഈ ഒരു പദം നമ്മൾ ഇന്നത്തെ ലക്ച്ചറിൽ ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് ആവശ്യ വ്യവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സ്ട്രീമം കൈക്കൊള്ളാൻ ആവശ്യമായ വ്യവസ്ഥകളിലേക്ക് കടക്കാം അപ്പോൾ ഈ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നാൽ fxy എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നും Pab എന്നൊരു പോയന്റിൽ അതിന് ഭാഗിക വർഗ്ഗ ഡെറിവേറ്റീവുകൾ ഉണ്ടെന്നും വയ്ക്കുക അപ്പോൾ എക്സ്ട്രീം വാല്യുന്റെ നിലനിൽപ്പിന് ആവശ്യമായ വ്യവസ്ഥകൾ എക്സ്ട്രീം വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മാക്സിമവും മിനിമം വാല്യൂവുമാണ് അല്ലെങ്കിൽ ഈ പോയന്റ് P ab ലുള്ള ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമം വാല്യൂവുമാണ് അപ്പോൾ ആവശ്യ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നാൽ x നും y ക്കും അനുസൃതമായിട്ടുള്ള രണ്ട് ഏക വർഗ്ഗ ഡെറിവേറ്റീവുകളും പൂജ്യമായിരിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ആവശ്യ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞത് ഇതിനർത്ഥം ഈ വ്യവസ്ഥകളില്ലാതെ ഈ പോയന്റിൽ നമുക്ക് ലോക്കൽ മിനിമവും ലോക്കൽ മാക്സിമവും ലഭിക്കുകയില്ല അതിനാൽ P ab എന്ന പോയന്റ് ലോക്കൽ മാക്സിമമോ മിനിമമോ ആണെങ്കിൽ ഈ പോയന്റിൽ ഭാഗിക ഡെറിവേറ്റീവുകൾ ഉറപ്പായും ഇല്ലാതാവണം പക്ഷേ ഇത് വാദിക്കാൻ ഇത് മാത്രം പോരാ നമുക്ക് fx ഉം fyഉം പൂജ്യമായ ഒരു പോയന്റ് ഉണ്ടെങ്കിൽ ആ പോയന്റിൽ ഉറപ്പായും ഒരു ലോക്കൽ മിനിമമോ മാക്സിമമോ ഉണ്ടാവുമെന്ന് നമുക്ക് വാദിക്കാനാവില്ല കാരണം ഇതൊരു ആവശ്യ വ്യവസ്ഥയാണ് ആവശ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട ആദ്യത്തെ വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ പോയന്റുകളായിരിക്കും ലോക്കൽ മാക്സിമത്തിനും മിനിമത്തിനുമുള്ള കാൻഡിഡേറ്റുകൾ അവിടെ ലോക്കൽ മാക്സിമമോ മിനിമമോ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം അവിടെയൊരു ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയന്റ് കണ്ടെത്തുകയും മാത്രമല്ല നമ്മൾ നിർവചിച്ച നിർവചനപ്രകാരം നമ്മൾ ക്രിട്ടിക്കൽ പോയന്റുകൾ ഏതെല്ലാമാണെന്നും കണ്ടെത്തും അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയന്റുകളിൽ ലോക്കൽ മാക്സിമവും മിനിമവും ഇല്ലേ എന്ന് നോക്കും ഇല്ലെങ്കിൽ ആ പോയന്റിനെ സാഡിൽ പോയന്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ നിർവചനമനുസരിച്ച് P എന്ന ഈ പോയന്റ് ഒരു ക്രിട്ടിക്കൽ പോയന്റ് ആണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ P ab എന്ന ഒരു പോയന്റ് fxy എന്ന ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമം ആണെങ്കിൽ അപ്പോൾ ഇത് fxy യുടെ ഒരു ക്രിട്ടിക്കൽ പോയന്റാണ് കാരണം നമ്മൾ പറഞ്ഞതുപോലെ എക്സ്ട്രീമം മിനിമം ലഭിക്കുന്നതിന് ആവശ്യമായ ഒരു വ്യവസ്ഥയാണിത് അതിനാൽ ഈ ഒരു ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമം നിലനിൽക്കുന്ന ഒരു പോയന്റ് ab ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ക്രിട്ടിക്കൽ പോയന്റാവും കാരണം ലോക്കൽ എക്സ്ട്രീമവും ലോക്കൽ മിനിമവും ക്രിട്ടിക്കൽ പോയന്റുകളിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഇനി വീണ്ടും ആവശ്യ വ്യവസ്ഥകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു തെളിവെന്ന നിലക്ക് ab എന്ന പോയന്റ് ഒരു ക്രിട്ടിക്കൽ പോയന്റ് ആണെങ്കിൽ ആ പോയന്റിൽ ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ പൂജ്യമായിരിക്കും ഇനി ഈ ah ഉം bk യും P ab എന്ന പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ളതാണ് അപ്പോൾ ഇതൊരു അയൽപക്കമാണ് കാരണം h നും k ക്കും ഏത് വാല്യുവും എടുക്കാവുന്നതാണ് അപ്പോൾ ah ഉം bk യും P ab എന്ന പോയന്റിന്റെ അയല്പക്കമായിരിക്കും അതിനാൽ ചുറ്റുവട്ടത്ത് ഒരു പോയന്റ് ലഭിക്കുന്നതിന് h നും k ക്കും ഒരു വാല്യൂ എടുക്കാമെങ്കിൽ അവയ്ക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല അതിനാൽ ഈ പോയന്റ് P ab എന്നത് മാക്സിമത്തിന്റെ പോയന്റായിരിക്കും എപ്പോഴാണ് അതൊരു മാക്സിമത്തിന്റെ പോയന്റാവുന്നത് ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള ഫംഗ്ഷനുകളുടെ മൂല്യങ്ങൾ കുറഞ്ഞതാകുമ്പോൾ അതിനാൽ ഈ Pab പോയന്റിന്റെ ചുറ്റുവട്ടത്തുള്ള പോയന്റുകളിൽ കുറഞ്ഞ പോയന്റുകൾ ആയിരിക്കും കൈക്കൊള്ളുന്നത് ഉദാഹരണത്തിന് ഈ Δf നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ Δf fah bk fa b അപ്പോൾ ഇതൊരു ലോക്കൽ മാക്സിമത്തിന്റെ പോയന്റാണെങ്കിൽ ഈ fab എന്നതായിരിക്കും ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള മൂല്യങ്ങളെക്കാളേറെ വലിയ മൂല്യം അപ്പോൾ ഈ പോയന്റ് ഒരു മാക്സിമം ആണെങ്കിൽ ഈ വാല്യു എല്ലാ ചെറിയ h നും k ക്കും ≦ ആയിരിക്കും ഈ ab പോയന്റിന്റെ ചുറ്റുവട്ടത്ത് h നും k ക്കും എന്ത് സംഖ്യ നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെയായിരിക്കും അപ്പോൾ ഈ വാല്യു ≦ ആയിരിക്കും മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ പോയന്റ് abക്ക് h ന്റെയും k യുടെയും എല്ലാം മൂല്യങ്ങൾക്കും Δf ≦ 0 ആയ ഒരു അയല്പക്കം തീർച്ചയായിട്ടും ഉണ്ടാവും Δf ≧ 0 ആണെങ്കിൽ ഈയൊരു പോയന്റ് മിനിമം ആയിരിക്കും ഈ fab എന്നത് fahbk എന്നതിനേക്കാൾ ചെറിയ ഒരു വാല്യൂ ആയിരിക്കും ഇനി ഈ പോയന്റ് ab യിൽ നമ്മൾ ടെയ്ലെഴ്സ് സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചാൽ ഇവിടെ എന്താണ് സംഭവിക്കുകയെന്നാൽ fahbk എന്നത് fab ക്ക് തുല്യമായിരിക്കും ഇത് നമ്മൾ മുമ്പത്തെ ലക്ച്ചറുകളിൽ ഇതിനകം ചർച്ച ചെയ്തതാണ് അപ്പോൾ hf x ഇത് ഏക വർഗ്ഗ ഡെറിവേറ്റീവാണ് ഇവിടെ ab യിൽ രണ്ടാം വർഗ്ഗ ഡെറിവേറ്റീവും ഈ ഡെറിവേറ്റീവ് നിലനിൽക്കുവോളം നമുക്ക് ab പോയന്റിൽ ഈ വിസ്താരണം നടത്താവുന്നതാണ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ നിർവചിച്ചിട്ടുള്ള Δf നെ fah bk fab യുടെ ഡിഫറെൻസായിട്ട് എടുക്കുകയാണെങ്കിൽ Δfh fx abk fy ab12 h2 fxx 2hk fxyk2 fkk a b ⋯ അപ്പോൾ വേണ്ടുവോളം ചെറിയതായ h നും k ക്കും Δf ന്റെ ചിഹ്നം h fx abk fy ab യുടെ ചിഹ്നത്തോട് ആശ്രയിച്ചിരിക്കും അടുത്ത സ്ലൈഡിൽ നമ്മൾ എന്താണ് വിശദമായി കാണുകയെന്നാൽ വലതു വശത്തുള്ള ഈ വിസ്താരത്തിന്റെ ചിഹ്നം ഈ Δf ന്റെ ചിഹ്നം അടിസ്ഥാനപരമായി ഈ ആദ്യത്തെ പദത്തിന്റെ ചിഹ്നത്തിനെ ആശ്രയിക്കും ഇവയാണ് h നും k ക്കും അടിസ്ഥാനമായിട്ട് ഇവിടെയുള്ള പ്രധാന പദങ്ങൾ അതിനാൽ വേണ്ടുവോളം ചെറിയതായ h ന്റെയും k യുടെയും ചിഹ്നം ഈ പദത്തിന്റെ ചിഹ്നം കൊണ്ടായിരിക്കും നിർണയിക്കുക ഇതൊരു പോസിറ്റീവ് പദം ആണെങ്കിൽ Δf പോസിറ്റീവ് ആയിരിക്കും ഇവിടെ നമുക്കുള്ളത് എന്തു തന്നെയാണെങ്കിലും ഇതൊരു നെഗറ്റീവ് പദമാണെങ്കിൽ Δf നെഗറ്റീവും ആയിരിക്കും കാരണം ഇതെല്ലാം ഉയർന്ന വർഗ്ഗത്തിലുള്ള പദങ്ങളാണ് ഇനി h2 നോക്കുകയാണെങ്കിൽ ഇവിടെ hk എന്നൊരു പ്രൊഡക്ട് ഉണ്ട് അപ്പോൾ കുറഞ്ഞ പക്ഷം നമുക്ക് ചെറിയ h ഉം k യും കണ്ടെത്താനാവും ഇവിടെ അത് വേണ്ടുവോളം ചെറിയതാണ് അതിനാൽ ഈ പോയന്റ് abയുടെ അടുത്ത അയൽപക്കത്ത് ഈ ഒരു ഘടകം വഴി മാത്രമേ ഇതിന്റെ ചിഹ്നം നിർണയിക്കുകയുള്ളൂ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാം ഇവിടെ നമുക്ക് ഇതുണ്ട് Δfh fx abk fy ab12 h2 fxx2hk fxyk2 fkk a b ⋯ ഇവിടെ h→0 ആക്കുകയാണെങ്കിൽ കാരണം നമ്മൾ ഇപ്പോഴും അയല്പക്കത്താണ് അപ്പോൾ y ന്റെ ദിശയിൽ k ഉണ്ടാവും അപ്പോൾ നമ്മൾ h→0 ആക്കിയാൽ നമ്മൾ ab പോയന്റിന്റെ അയൽപക്കത്താണുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് Δfk fy ab12 k2 fkk ab⋯ എന്നാണ് അപ്പോൾ മുമ്പത്തെ സ്ലൈഡിലുള്ള നമ്മുടെ വാദം വീണ്ടും ആവർത്തിച്ചു കൊള്ളട്ടെ അപ്പോൾ ഈ Δf ന്റെ ചിഹ്നം ഇവിടെയുള്ള പ്രധാന പദമായ k നെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള എല്ലാ പദങ്ങളും k2 k3 എന്നിങ്ങനെ ചെറിയ k യുടെ മാറ്റത്തിലാവും അപ്പോൾ ഈ പദങ്ങൾ ഒഴിവാക്കാവുന്നതുപോലെയാണ് വീണ്ടും ചിഹ്നം നിർണയിക്കുന്നത് ഈ പദം കൊണ്ടാവും ഉദാഹരണത്തിന് ഇവിടെ h ഉണ്ട് ഇവിടെ h 1000 h3 2000h3 അപ്പോൾ ഇവിടെ നമുക്ക് കാണാനാവുന്നത് എന്തെന്നാൽ ഈ ചിഹ്നം h കൊണ്ട് മാത്രമാണ് നിർണയിക്കുന്നത് ഈ പദങ്ങൾ കൊണ്ടല്ല പക്ഷേ നമുക്ക് വേണ്ടുവോളം ചെറുതായ പൂജ്യത്തിനടുത്തുള്ള ഒരു h ലേക്ക് പോവുകയാണെങ്കിൽ അത് നിർണയിക്കുന്നത് ഇതിന്റെ ചിഹ്നം കൊണ്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ h0 1 എന്നെടുക്കുകയാണ് ഇത് വളരെ വലിയ വാല്യൂ ആണ് നമുക്ക് ഈ നെഗറ്റീവ് നമ്പറാണ് ലഭിക്കുന്നത് കാരണം ഈ h 0 1 ന്റെ മുമ്പിട്ടു നിൽക്കുന്ന പദങ്ങൾ ഇവയാണ് പക്ഷേ h പൂജ്യത്തിന് വളരെ അടുത്തായിട്ടുള്ളതിലേക്ക് പോവുകയാണെങ്കിൽ h0 1 ഇത് ഇപ്പോഴും നെഗറ്റീവാണ് പക്ഷേ വളരെ ചെറിയ ഒരു h ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ഇപ്പോഴും നെഗറ്റീവാണ് കാരണം ഇതാണ് അവസാനത്തെ പദം പക്ഷേ ഇനി ഇപ്പോൾ ഇവിടെ കാണാനാവുന്നത് എന്തെന്നാൽ നമ്മൾ 00001 എന്ന പോയന്റ് എടുത്തതിനാൽ ഈ കേസിൽ h പോസിറ്റീവ് ആണ് അപ്പോൾ ഈ പ്രയോഗത്തിന്റെ ഈ മൂല്യവും പോസിറ്റീവാണ് അതിവിടെ ഒരു പോയന്റാണ് അപ്പോൾ വേണ്ടുവോളം ചെറുതായ h ന് ഈ സംഖ്യകൾ എത്ര വലുതാണെങ്കിലും അതിന്റെ ആദ്യത്തെ പദം ആയിരിക്കും പദത്തിന്റെ ചിഹ്നം നിർണയിക്കുന്നത് ഇവിടെയും ഇതേ വാദമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് അതായത് വേണ്ടുവോളം ചെറുതായ k യുടെ പ്രയോഗത്തിന്റെ ചിഹ്നം നിർണയിക്കുന്നത് ആദ്യത്തെ പദമായ k fyab ആയിരിക്കും അതാണ് ഇവിടെയുള്ള പോയന്റ് അപ്പോൾ ഈ fyab പോസിറ്റീവ് ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ കാരണം ഒന്നുകിൽ ഇതൊരു ഡെറിവേറ്റീവാണ് ab യിലുള്ള y ക്ക് അനുസൃതമായ ഭാഗിക ഡെറിവേറ്റീവാണ് അതിനാൽ ഇതിനൊരു നിർണയിച്ച ചിഹ്നമുണ്ടാവും അപ്പോൾ ഈ k പോസിറ്റീവാണെങ്കിൽ ഈ Δf ഉം പോസിറ്റീവ് ആയിരിക്കും ഇനി k നെഗറ്റീവാണെങ്കിൽ Δf ഉം നെഗറ്റീവ് ആയിരിക്കും ഇനി ഉദാഹരണത്തിന് ഇത് h0 k0 ആണ് h0 നമ്മൾ ആദ്യമേ നിയോഗിച്ചതാണ് അപ്പോൾ ചുറ്റുവട്ടത്തുള്ള പോയന്റുകൾ മാത്രം y യുടെ ദിശയിൽ ഒള്ളൂ അപ്പോൾ ഒന്നുകിൽ k പോസിറ്റീവ് ആയാൽ നമ്മൾ മേൽ ഭാഗത്തിന്റെ ചുറ്റുവട്ടത്തായിരിക്കും k നെഗറ്റീവാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഈ ചുറ്റുവട്ടത്തിലായിരിക്കും ഇത് k പോസിറ്റീവിനും ഇങ്ങനെയാണ് അപ്പോൾ Δf 0 ആയ ഒരു പോയന്റുള്ള ചുറ്റുവട്ടത്ത് Δf 0 ആയ ഒരു പോയന്റുമുണ്ട് ഇനി വീണ്ടും Δf 0 എന്ന് അനുമാനിക്കുകയാണെങ്കിൽ കാരണം ab എന്ന ഈ പോയന്റിൽ fy എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് നെഗറ്റീവാണെങ്കിൽ നമുക്ക് ഈ Δf 0 Δf 0 എന്നിവ ചുറ്റുവട്ടത്തുള്ള പോയന്റിലുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാണാനാവുന്നതെന്നാൽ ഇവിടെ fy പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും ഈ Δf അതിന്റെ ചിഹ്നം മാറ്റുകയാണ് Δf എന്നത് ab എന്ന പോയന്റിലുള്ള മൂല്യവും ചുറ്റുവട്ടത്തുള്ള മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇതിന്റെ ചിഹ്നം മാറുന്നുണ്ട് പക്ഷേ ഇതിന്റെ ലോക്കൽ മിനിമമോ മാക്സിമമോ ലഭിക്കണമെങ്കിൽ അത് അതിന്റെ ചിഹ്നം മാറ്റണം കാരണം എങ്കിൽ മാത്രമേ ഇതൊരു ലോക്കൽ മാക്സിമത്തിന്റെയോ മിനിമത്തിന്റെയോ പോയന്റാണെന്ന് നിർണയിക്കാൻ കഴിയുകയുള്ളൂ ചുറ്റുവട്ടത്തുള്ള എല്ലാ പോയന്റുകളും ഇതേ ചിഹ്നം കൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ Δf പോസിറ്റീവാണ് ചുറ്റുവട്ടത്തുള്ള ഒരു പോയന്റിൽ Δf നെഗറ്റീവാണ് ഇത് പറഞ്ഞുവെക്കുന്നത് ഈ ഫംഗ്ഷൻfy0 ആവാതെ ഒരു എക്സ്ട്രീം വാല്യൂ ഉള്ള എക്സ്ട്രീമം ഉണ്ടാവില്ല എന്നതാണ് കാരണം k ഈ പോയന്റിന്റെ ചുറ്റുവട്ടത്തിലൂടെ നീങ്ങുകയാണ് അപ്പോൾ ഈ fy പൂജ്യമാണെങ്കിൽ അല്ലെങ്കിൽ fy പോസിറ്റീവാണെങ്കിൽ അത് ചിഹ്നം മാറ്റുന്നു നെഗറ്റീവാണെങ്കിലും ഇത് ചിഹ്നം മാറ്റുന്നുണ്ട് അതിനാൽ fy നിർബന്ധമായും 0 ആയിരിക്കണം കാരണം പൂജ്യമല്ലെങ്കിൽ അത് ചിഹ്നം മാറ്റുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു അപ്പോൾ fy0 എന്നത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഇതൊരു ലോക്കൽ എക്സ്ട്രീമത്തിന്റെ പോയന്റാവില്ല ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ സമാനമായി നമുക്കെന്താണ് ചെയ്യാനാവുകയെന്നാൽ ഇവിടെയുള്ള ഈ പ്രയോഗം നമ്മൾ ആദ്യമേ കണ്ടതാണ് ഇനി സമാനമായി ഈ k→0 ഇതിലേക്ക് കൂട്ടിയാൽ Δf h നു വേണ്ടി ചിഹ്നം മാറ്റുന്നുണ്ടെന്ന് കാണാം അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ fx പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ Δf പോസിറ്റീവ് ആണെന്നത് നമുക്ക് മനസ്സിലാകും ഇനി h നെഗറ്റീവ് ആണെങ്കിൽ Δf നെഗറ്റീവായിരിക്കും hk→0 ആകുമ്പോഴാണത് അപ്പോൾ ഈ പദം ഇവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ പദങ്ങളെല്ലാം k ഉൾപ്പെടെയുള്ളവ പൂജ്യത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് h fxab എന്നിങ്ങനെ ഉണ്ടാവും Δfh fx abk fy ab12 h2 fxx2hk fxyk2 fkk a b ⋯ ഇനി ഇവിടെ fx 0 എന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഈ h നെയാണ് ചിഹ്നം ആശ്രയിക്കുക അപ്പോൾ h പോസിറ്റീവ് ആണെങ്കിൽ Δf നെഗറ്റീവ് ആയിരിക്കും h നെഗറ്റീവ് ആണെങ്കിൽ Δf പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ab എന്ന അതേ പോയന്റിന്റെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടെത്തിയ അതേ വാദം അതായത് ഇത് ചിഹ്നം മാറ്റുന്നു Δf പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് അതിന്റെ ചിഹ്നം മാറ്റുന്നുണ്ട് ഈ ab ഒരു ലോക്കൽ എക്സ്ട്രീമത്തിന്റെ പോയന്റ് ആവണമെങ്കിൽ നമുക്ക് ഇവിടെ fx0 എന്നതാവണം അപ്പോൾ fx നിർബന്ധമായും പൂജ്യം ആയിരിക്കണം നേരത്തെ നമ്മൾ fy പൂജ്യമാവണമെന്ന് കണ്ടെത്തി അപ്പോൾ പോയന്റ് ab യിൽ എക്സ്ട്രീമം നിലനിൽക്കുന്നതിനുവേണ്ടി ആവശ്യമായ വ്യവസ്ഥ fx0 യും fy0 യും ആവണമെന്നതാണ് ഈ രണ്ടു ഡെറിവേറ്റീവുകളും പൂജ്യം ആയിരിക്കണം ഇതാണ് നമ്മൾ കണ്ടെത്തിയത് ഇവ പൂജ്യമല്ലെങ്കിൽ Δf ചിഹ്നം മാറ്റുന്നുണ്ട് അപ്പോൾ ആ പോയന്റിന് ലോക്കൽ മിനിമം ആവാനോ മാക്സിമം ആവാനോ കഴിയില്ല ഇനി നമുക്ക് ഒന്നാമത്തെ പ്രശ്നത്തിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ ഈ fxy x3y3 3x 12y20 എന്ന ഫംഗ്ഷണിന്റെ എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും കണ്ടെത്തും അപ്പോൾ ഇനി ക്രിട്ടിക്കൽ പോയന്റ് കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ x നും y ക്കും അനുസൃതമായി ഭാഗിക ഡെറിവേറ്റീവുകൾ കണക്കു കൂട്ടണം എന്നിട്ട് അവയെ പൂജ്യത്തിന് തുല്യമാക്കണം ഈ രണ്ട് വ്യവസ്ഥകളിൽ നിന്നും fxxy0 fyxy0 നിറവേറ്റുന്ന പോയന്റുകൾ എത്ര പോയന്റുകൾ ഉണ്ടെന്നതും കണ്ടെത്തണം അപ്പോൾ ഈ fx xy എന്നതും fy xy എന്നതും പൂജ്യത്തിന് തുല്യമാണ് ഇനി fy xy എടുക്കുകയാണെങ്കിൽ 3y2 120 ആവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ വ്യവസ്ഥയിൽ നിന്ന് കിട്ടുന്നത് x21 ആണ് അപ്പോൾ ഇനി രണ്ടാമത്തെ വ്യവസ്ഥയിൽ നിന്ന് y24 കിട്ടും ഇത് സൂചിപ്പിക്കുന്നത് y±2 എന്നാണ് അപ്പോൾ x ±1 y±2 fxxy എല്ലാ പോയന്റുകളിലും 0 ആണ് Fy0 ആണ് അപ്പോൾ ഇതെല്ലാമാണ് ക്രിട്ടിക്കൽ പോയന്റുകൾ ഇനി ഇവിടെ ഇതിൽനിന്നും 1 ഉം പിന്നീട് 2 ഉം എടുക്കാം അപ്പോൾ നമുക്കുള്ളത് ±1±2 അപ്പോൾ ഈ നാല് സാധ്യതകളുമുണ്ട് ഇനി ഈ ഫംഗ്ഷന്റെ പ്രതലത്തിൽ നമുക്കിവിടെ കാണാമെങ്കിൽ ഇതെല്ലാം പോയന്റുകളാണ് ഉദാഹരണത്തിന് 1 ഉം 2 ഉം അപ്പോൾ ഇവിടെ x ൽ നമുക്ക് 1 ഉണ്ട് പിന്നെ നമുക്ക് 2 ഉണ്ട് അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ പോയന്റുള്ള ഒരു പോയന്റ് ഉണ്ട് വീണ്ടും ഇവിടെ 1 പിന്നെ നമുക്ക് ഒരു 2 ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പോയന്റ് ഉണ്ടാവും ഇവിടെ ഒരു 1 ഉം 2 ഉം ഇവിടെയും ഒരു പോയന്റ് ഉണ്ടാവും 1 2 ലും ഒരു പോയന്റ് ഉണ്ടാവും ക്രിട്ടിക്കൽ പോയന്റുകളായ ഈ 4 പോയന്റുകളും ഇവിടെയുണ്ട് അപ്പോൾ ഈ പോയന്റുകളിൽ x നും y ക്കും അനുസൃതമായിട്ടുള്ള ഫംഗ്ഷൻഡെറിവേറ്റീവ് പൂജ്യമാണ് ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഈ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയന്റുകൾ കണ്ടെത്തും അപ്പോൾ വീണ്ടും fx 0 എന്നത് വെച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ ഇവിടെ fx0 എന്നത് കിട്ടും ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ x2 y2 ഉം ഈ പദത്തിന്റെ ഡെറിവേറ്റീവും ലഭിക്കും വീണ്ടും 2 പിന്നെ 2x x ഉം x ന് അനുസൃതമായി ഉള്ള ഇതിന്റെ ഡെറിവേറ്റീവും കിട്ടും ഇനി e 2 എന്ന പദവും ഉണ്ടാവും ഇനി ഈ പദം പൊതുവായിട്ടെടുക്കുകയാണെങ്കിൽ അതുപോലെ ഈ x ഉം പൊതുവായിട്ടെടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ഉണ്ടാവും ഇവിടെ x2 y2 ഉണ്ടാവും ഈ എക്സ്പോണെൻഷ്യൽ 0 ആവാൻ പാടില്ല അപ്പോൾ ഇത് പൂജ്യത്തിന് തുല്യമാണ് എന്ന് നമുക്ക് ലഭിക്കും ഇതാണ് ഇവിടെ വേണ്ടതായിട്ടുള്ള വ്യവസ്ഥ അതായത് 2 x 0 ആവണം 2 x 0 ഇനി fy ക്കും ഇതുപോലെ നമുക്ക് y0 എന്ന് ലഭിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ x0 എന്നെടുക്കുന്നു അപ്പോൾ നമ്മൾ y നെ കണക്കിലെടുക്കാതെ x0 ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ അനുസരിച്ച് fx പൂജ്യമായിരിക്കും മാത്രമല്ല നമ്മൾ x0 എടുക്കുമ്പോൾ ഈ കേസിൽ നമുക്ക് 2 വും പിന്നെ ഈ y2 ഉംകിട്ടും അപ്പോൾ ഈ x പൂജ്യമാണ് y ഉം പൂജ്യമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് y0 എന്ന് കിട്ടി അത് പോലെ y±√2 അപ്പോൾ x0 എന്നതിന് തത്തുല്യമായി x0 എന്ന ഒരു പോയന്റുണ്ട് അപ്പോൾ ഇവിടെ 00യും ഇവിടെ 0 ±√2 ഉം സമാനമായി നമുക്ക് ഇവിടെ y0 ആണ് y0 ആയതു കൊണ്ട് തന്നെ ഇതും പൂജ്യമായിരിക്കും ഇനി y0 എന്നത് ചേർക്കുമ്പോൾ x ന്റെ സാധ്യമായ മൂല്യങ്ങൾ നമുക്ക് കണ്ടെത്താനാവും അപ്പോൾ ഇതുപോലെ ഈ ഇക്വേഷനുകൾ സോൾവ് ചെയ്തു കൊണ്ട് നമുക്ക് എല്ലാ ക്രിട്ടിക്കൽ പോയന്റുകളും കണ്ടെത്താനാവുന്നതാണ് അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക നമുക്ക് 00 ലും ±√20 ലും 0 ±√2 ലും ക്രിട്ടിക്കൽ പോയന്റുകൾ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പ്രശ്നത്തിൽ കാണാവുന്ന ക്രിട്ടിക്കൽ പോയന്റുകളാണ് അപ്പോൾ ഇതെല്ലാമാണ് ക്രിട്ടിക്കൽ പോയന്റുകൾ അപ്പോൾ ഇതുപോലെയും ഇതുപോലെയും ഇതുപോലെയും വീണ്ടും ഇവിടെയും ക്രിട്ടിക്കൽ പോയന്റുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ഈ പ്രശ്നത്തിന്റെക്രിട്ടിക്കൽ പോയന്റുകൾ അപ്പോൾ എന്താണ് ഇതിന്റെ ഫലം നമുക്ക് ഈ ab എന്ന പോയന്റ് ലോക്കൽ മാക്സിമം ആവണമെങ്കിൽ ലോക്കൽ മിനിമം ആവണമെങ്കിൽ എക്സ്ട്രീമിന് വേണ്ടതായിട്ടുള്ള ആവശ്യമായ വ്യവസ്ഥകൾ നമ്മൾ കണ്ടെത്തി fx ab0 and fy a b0 എന്നത് പൂജ്യം ആവണം ഈ ക്രിട്ടിക്കൽ പോയന്റുകൾ ലോക്കൽ എക്സ്ട്രീമത്തിനുള്ളതും സാഡിൽ പോയന്റുകൾക്കുമുള്ള കാൻഡിഡേറ്റുകളാണ് കാരണം സാഡിൽ പോയന്റുകൾ എന്നത് ലോക്കൽ എക്സ്ട്രീമുകൾ നിലനിൽക്കാത്ത ക്രിട്ടിക്കൽ പോയന്റുകളാണ് അപ്പോൾ ഇതാണ് സാഡിൽ പോയന്റ് എന്ന പോയന്റുകൾ അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഇവിടെ ലോക്കൽ എക്സ്ട്രീമിന്റെ പോയന്റ് നമുക്കൊരു ലോക്കൽ മാക്സിമം ഉണ്ട് ഇവിടെയും ഒരു ലോക്കൽ മാക്സിമം ഉണ്ട് ഇതെല്ലാമാണ് ലോക്കൽ മിനിമം ആയിട്ടുള്ള പോയന്റുകൾ ഇനി ഈ ഒരു സ്ഥലത്ത് ലോക്കൽ മാക്സിമമോ മിനിമമോ അല്ലാത്ത ഒരു സ്ഥലമുണ്ട് അതിനെയാണ് സാഡിൽ പോയന്റ് എന്ന് വിളിക്കുന്നത് അടുത്ത ലക്ച്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ എന്ന് തിരിച്ചറിയുക എന്നത് പഠിക്കാം കാരണം ആവശ്യ വ്യവസ്ഥകൾ നമുക്ക് ലോക്കൽ എക്സ്ട്രീമുകൾക്കുള്ളതും സാഡിൽ പോയന്റുകൾക്കുള്ളതുമായ കാൻഡിഡെയ്റ്റിനെ നൽകുന്നു പക്ഷേ അപ്പോഴും നൽകിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ പോയന്റ് ഒരു ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ അല്ലെങ്കിൽ സാഡിൽ പോയന്റോ എടുക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തണം അപ്പോൾ അതായിരിക്കും അടുത്ത ലക്ച്ചറിനുള്ള ഉള്ളടക്കം ഇതാണ് റഫറൻസുകൾ നന്ദി